പേറ്റന്റബിലിറ്റി സെർച്ച് എന്നാൽ എന്താണ് പേറ്റന്റബിലിറ്റി സെർച്ച് എന്നാൽ എന്താണ് പൊതുവേയുള്ള വിശ്വാസത്തിന് എതിരായി പേറ്റന്റെബിലിറ്റി സെർച്ച് ഒരു കണ്ടെത്തൽ വ്യക്തമാണോ അല്ലയോ എന്നറിയാനുള്ള ശ്രമമാണ് പൊതുവേയുള്ള വിശ്വാസത്തിന് എതിരായി പേറ്റന്റെബിലിറ്റി സെർച്ച് ഒരു കണ്ടെത്തൽ വ്യക്തമാണോ അല്ലയോ എന്നറിയാനുള്ള ശ്രമമാണ് അത് ഒരു കണ്ടെത്തലിൽ കണ്ടെത്തൽ ഘട്ടം ഉണ്ടോ എന്നറിയാൻ ഉള്ളതാണ് അത് ഒരു കണ്ടെത്തലിൽ കണ്ടെത്തൽ ഘട്ടം ഉണ്ടോ എന്നറിയാൻ ഉള്ളതാണ് അത് ഒരു കണ്ടെത്തലിൽ പുതുമ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ളതല്ല അത് ഒരു കണ്ടെത്തലിൽ പുതുമ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ളതല്ല മനസ്സിലാക്കേണ്ടതും തുടക്കത്തിൽ തന്നെ സ്ഥാപിക്കേണ്ടതുമായ ഒരു വ്യത്യാസമാണ് ഇത് മനസ്സിലാക്കേണ്ടതും തുടക്കത്തിൽ തന്നെ സ്ഥാപിക്കേണ്ടതുമായ ഒരു വ്യത്യാസമാണ് ഇത് ഇന്ത്യൻ പേറ്റന്റ് ആക്ട് സെക്ഷൻ 13 Indian Patent Act Section 13 എന്ന വ്യവസ്ഥയിൽ മുൻ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ മുൻ ക്ലെയിം വഴി മുൻകൂർ തിരച്ചിൽ നടത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതായി കാണാം ഇന്ത്യൻ പേറ്റന്റ് ആക്ട് സെക്ഷൻ 13 Indian Patent Act Section 13 എന്ന വ്യവസ്ഥയിൽ മുൻ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ മുൻ ക്ലെയിം വഴി മുൻകൂർ തിരച്ചിൽ നടത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതായി കാണാം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് അപേക്ഷ ഫയൽ ചെയ്യുമ്പോൾ എക്സാമിനർ നടത്തുന്ന തിരച്ചിലാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് അപേക്ഷ ഫയൽ ചെയ്യുമ്പോൾ എക്സാമിനർ നടത്തുന്ന തിരച്ചിലാണ് പേറ്റന്റ് അപേക്ഷയിൽ പരാമർശിക്കപ്പെടുന്ന കണ്ടെത്തൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല എന്നുറപ്പാക്കുകയാണ് ഈ തിരയലിന്റെ ലക്ഷ്യം പേറ്റന്റ് അപേക്ഷയിൽ പരാമർശിക്കപ്പെടുന്ന കണ്ടെത്തൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല എന്നുറപ്പാക്കുകയാണ് ഈ തിരയലിന്റെ ലക്ഷ്യം പൊതുവായി പറഞ്ഞാൽ തിരച്ചിലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുതുമ തിരയുന്നതിൽ ശ്രദ്ധ കേന്ദ്രികരിക്കുക എളുപ്പമാണ് പൊതുവായി പറഞ്ഞാൽ തിരച്ചിലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുതുമ തിരയുന്നതിൽ ശ്രദ്ധ കേന്ദ്രികരിക്കുക എളുപ്പമാണ് എന്നാൽ ലോകമെമ്പാടും പേറ്റന്റെബിലിറ്റി സെർച്ചുകൾ കണ്ടെത്തൽ ഘട്ടമുണ്ടോ കണ്ടെത്തൽ വ്യക്തമാണോ അല്ലയോ എന്നൊക്കെ നിർണ്ണയിക്കുന്നു എന്നാൽ ലോകമെമ്പാടും പേറ്റന്റെബിലിറ്റി സെർച്ചുകൾ കണ്ടെത്തൽ ഘട്ടമുണ്ടോ കണ്ടെത്തൽ വ്യക്തമാണോ അല്ലയോ എന്നൊക്കെ നിർണ്ണയിക്കുന്നു ഒരു അപേക്ഷകൻ പേറ്റന്റബിളിറ്റി സെർച്ച് നടത്താൻ താത്പ്പര്യപ്പെടുന്നതിന്റെ കാരണം പേറ്റന്റ് നേടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയാണ് ഒരു അപേക്ഷകൻ പേറ്റന്റബിളിറ്റി സെർച്ച് നടത്താൻ താത്പ്പര്യപ്പെടുന്നതിന്റെ കാരണം പേറ്റന്റ് നേടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയാണ് കാരണം കണ്ടെത്തൽ ഘട്ടത്തെ കുറിച്ച് നിങ്ങൾക്ക് ന്യായമായ വിശ്വാസം ഉണ്ടാകുന്ന പക്ഷം മറ്റ് നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേറ്റന്റ് ലഭിക്കാനുള്ള സാധ്യത താരതമ്യേന വളരെ വലുതാണ് കാരണം കണ്ടെത്തൽ ഘട്ടത്തെ കുറിച്ച് നിങ്ങൾക്ക് ന്യായമായ വിശ്വാസം ഉണ്ടാകുന്ന പക്ഷം മറ്റ് നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേറ്റന്റ് ലഭിക്കാനുള്ള സാധ്യത താരതമ്യേന വളരെ വലുതാണ് പേറ്റന്റബിലിറ്റി സെർച്ചിൽ സാധാരണയായി സംഭവിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് പേറ്റന്റബിലിറ്റി സെർച്ചിൽ സാധാരണയായി സംഭവിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് ഇതിന്റെ പരിസമാപ്തിയാണ് പേറ്റന്റെബിലിറ്റി സെർച്ച് ഇതിന്റെ പരിസമാപ്തിയാണ് പേറ്റന്റെബിലിറ്റി സെർച്ച് പാരമ്പര്യമായി പ്രതേകിച്ചും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള വികസിതമായ അധികാരപരിധിയിൽ പേറ്റന്റ് ലഭ്യതാ തിരച്ചിൽ പേറ്റന്റ് അറ്റോർണി നടത്തുന്നില്ല പാരമ്പര്യമായി പ്രതേകിച്ചും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള വികസിതമായ അധികാരപരിധിയിൽ പേറ്റന്റ് ലഭ്യതാ തിരച്ചിൽ പേറ്റന്റ് അറ്റോർണി നടത്തുന്നില്ല പേറ്റന്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന വ്യക്തിയല്ല തിരച്ചിൽ നടത്തുന്നത് പേറ്റന്റ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന വ്യക്തിയല്ല തിരച്ചിൽ നടത്തുന്നത് തിരച്ചിൽ സംഘം അഥവാ സെർച്ചേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു വ്യത്യസ്ത കൂട്ടം പ്രൊഫഷണലുകളാണ് ഇക്കാര്യം ചെയ്യുന്നത് തിരച്ചിൽ സംഘം അഥവാ സെർച്ചേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു വ്യത്യസ്ത കൂട്ടം പ്രൊഫഷണലുകളാണ് ഇക്കാര്യം ചെയ്യുന്നത് പേറ്റന്റബിലിറ്റി സെർച്ചിനായി അപേക്ഷിക്കുമ്പോൾ സാധാരണ അനുവർത്തിക്കപ്പെടുന്ന സംഭവങ്ങൾ ഞാൻ അണിനിരത്തട്ടെ പേറ്റന്റബിലിറ്റി സെർച്ചിനായി അപേക്ഷിക്കുമ്പോൾ സാധാരണ അനുവർത്തിക്കപ്പെടുന്ന സംഭവങ്ങൾ ഞാൻ അണിനിരത്തട്ടെ ഒന്നാമതായി പേറ്റന്റ് അറ്റോർണി തിരച്ചിൽ നടത്തുന്ന വ്യക്തിക്ക് ഒരു സെർച്ച് റിക്വസ്റ്റ് അയയ്ക്കുന്നു ഒന്നാമതായി പേറ്റന്റ് അറ്റോർണി തിരച്ചിൽ നടത്തുന്ന വ്യക്തിക്ക് ഒരു സെർച്ച് റിക്വസ്റ്റ് അയയ്ക്കുന്നു ഇത് തിരച്ചിലിനായി ചിലവഴിക്കേണ്ട സമയവും ചിലവും ഒക്കെ സൂചിപ്പിക്കുന്നതായിരിക്കും ഇത് തിരച്ചിലിനായി ചിലവഴിക്കേണ്ട സമയവും ചിലവും ഒക്കെ സൂചിപ്പിക്കുന്നതായിരിക്കും ഇത് നിർണായകമാണ് ഇത് നിർണായകമാണ് കാരണം ഇത് കണ്ടെത്തലിനെ അല്ലെങ്കിൽ കണ്ടെത്തലിന്റെ വെളിപ്പെടുത്തലിനെ നിർവചിക്കുന്നു കാരണം ഇത് കണ്ടെത്തലിനെ അല്ലെങ്കിൽ കണ്ടെത്തലിന്റെ വെളിപ്പെടുത്തലിനെ നിർവചിക്കുന്നു പേറ്റന്റ് തിരയേണ്ട ചില വിശാലമായ വിഭാഗങ്ങളെ കുറിച്ചും ഇത് വിവരം നൽകുന്നു ഇത് ചെയ്തുകഴിഞ്ഞാൽരണ്ടാമത്തെ ഘട്ടം യഥാർത്ഥ തിരയൽ നടത്തുക എന്നതാണ് പേറ്റന്റ് തിരയേണ്ട ചില വിശാലമായ വിഭാഗങ്ങളെ കുറിച്ചും ഇത് വിവരം നൽകുന്നു ഇത് ചെയ്തുകഴിഞ്ഞാൽരണ്ടാമത്തെ ഘട്ടം യഥാർത്ഥ തിരയൽ നടത്തുക എന്നതാണ് ഈ തിരയൽ നടത്തുന്നത് ഒരു തിരച്ചിൽ വിദഗ്ധനാണ് ഈ തിരയൽ നടത്തുന്നത് ഒരു തിരച്ചിൽ വിദഗ്ധനാണ് തിരയൽ പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം തിരയൽ വിദഗ്ധൻ വികസിപ്പിച്ച റഫറൻസുകൾ അവലോകനം ചെയ്യുക എന്നതാണ് തിരയൽ പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം തിരയൽ വിദഗ്ധൻ വികസിപ്പിച്ച റഫറൻസുകൾ അവലോകനം ചെയ്യുക എന്നതാണ് തിരയൽ വിദഗ്ദൻ ഗൂഗിൾ വികസിപ്പിച്ച ഗൂഗിൾ പേറ്റന്റ് സെർച്ച് പോലുള്ള സൌജന്യ ഓൺലൈൻ ഡേറ്റാബേയ്സോ വിവിധ പേറ്റന്റ് ഓഫീസുകൾ വികസിപ്പിച്ച ഡാറ്റാബെയ്സോ ഉപയോഗിച്ചോയിരിക്കും തിരയൽ നടത്തിയിരിക്കുക തിരയൽ വിദഗ്ദൻ ഗൂഗിൾ വികസിപ്പിച്ച ഗൂഗിൾ പേറ്റന്റ് സെർച്ച് പോലുള്ള സൌജന്യ ഓൺലൈൻ ഡേറ്റാബേയ്സോ വിവിധ പേറ്റന്റ് ഓഫീസുകൾ വികസിപ്പിച്ച ഡാറ്റാബെയ്സോ ഉപയോഗിച്ചോയിരിക്കും തിരയൽ നടത്തിയിരിക്കുക ആദ്യം അദ്ദേഹം ഒരു കൂട്ടം റഫറൻസുകൾ ശേഖരിക്കും ആദ്യം അദ്ദേഹം ഒരു കൂട്ടം റഫറൻസുകൾ ശേഖരിക്കും മൂന്നാം ഘട്ടത്തിൽ ഈ റഫറൻസുകൾ അവലോകനം ചെയ്യും മൂന്നാം ഘട്ടത്തിൽ ഈ റഫറൻസുകൾ അവലോകനം ചെയ്യും നാലാം ഘട്ടത്തിൽ ക്ലയന്റിനെ തിരച്ചിൽ ഫലങ്ങൾ അറിയിക്കും നാലാം ഘട്ടത്തിൽ ക്ലയന്റിനെ തിരച്ചിൽ ഫലങ്ങൾ അറിയിക്കും തിരയൽ വിദഗ്ധൻ കണ്ടെത്തൽ നടത്തിയ വ്യക്തിയുമായിട്ടോ പേറ്റന്റ് അറ്റോർണിയുമായിട്ടോ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ക്ലയന്റ് കണ്ടെത്തൽ നടത്തിയ വ്യക്തി തന്നെ ആയിരിക്കും തിരയൽ വിദഗ്ധൻ കണ്ടെത്തൽ നടത്തിയ വ്യക്തിയുമായിട്ടോ പേറ്റന്റ് അറ്റോർണിയുമായിട്ടോ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ക്ലയന്റ് കണ്ടെത്തൽ നടത്തിയ വ്യക്തി തന്നെ ആയിരിക്കും ഈ റിപ്പോർട്ട് എങ്ങനെ അറിയിക്കണം എന്നതിന് പേറ്റന്റ് നിയമത്തിൽ ചില വിവക്ഷിത അർത്ഥങ്ങളുണ്ട് ഈ റിപ്പോർട്ട് എങ്ങനെ അറിയിക്കണം എന്നതിന് പേറ്റന്റ് നിയമത്തിൽ ചില വിവക്ഷിത അർത്ഥങ്ങളുണ്ട് നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പേറ്റന്റബിലിറ്റി തിരയൽ ഒരിക്കലും സാധുത തിരയുകയല്ല എന്നതാണ് നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പേറ്റന്റബിലിറ്റി തിരയൽ ഒരിക്കലും സാധുത തിരയുകയല്ല എന്നതാണ് നിങ്ങൾ ഒരു പേറ്റന്റബിലിറ്റി തിരയൽ നടത്തുമ്പോൾ അത് ഒരു കണ്ടത്തെലിന്റെ സാധുത ഉറപ്പാക്കുന്നില്ല എന്നതാണ് നിങ്ങൾ ഒരു പേറ്റന്റബിലിറ്റി തിരയൽ നടത്തുമ്പോൾ അത് ഒരു കണ്ടത്തെലിന്റെ സാധുത ഉറപ്പാക്കുന്നില്ല എന്നതാണ് ഇത് സെക്ഷൻ Section 13 ഇൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് സെക്ഷൻ Section 13 ഇൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ നമുക്ക് സെക്ഷൻ 13 കാണാൻ കഴിയും ഇവിടെ നമുക്ക് സെക്ഷൻ 13 കാണാൻ കഴിയും സെക്ഷൻ 12 ആവശ്യപ്പെടുന്നതനുസരിച്ച് പേറ്റന്റ് ഓഫീസ് നടത്തുന്ന പരിശോധനയെയും അന്വേഷണത്തെയും കുറിച്ചാണ് സെക്ഷൻ 13 section 13 പറയുന്നത് സെക്ഷൻ 12 ആവശ്യപ്പെടുന്നതനുസരിച്ച് പേറ്റന്റ് ഓഫീസ് നടത്തുന്ന പരിശോധനയെയും അന്വേഷണത്തെയും കുറിച്ചാണ് സെക്ഷൻ 13 section 13 പറയുന്നത് സെക്ഷൻ 13 ഏത് പേറ്റന്റിന്റെയും സാധുത ഒരു തരത്തിലും ഉറപ്പിക്കുന്നില്ലെന്നും പറയുന്നു സെക്ഷൻ 13 ഏത് പേറ്റന്റിന്റെയും സാധുത ഒരു തരത്തിലും ഉറപ്പിക്കുന്നില്ലെന്നും പറയുന്നു തിരയൽ ഒരു പേറ്റന്റിന്റെ സാധുത ആവശ്യപ്പെടുന്നില്ലെന്ന് ഇതിലൂടെ നമുക്ക് മനസിലാക്കാം തിരയൽ ഒരു പേറ്റന്റിന്റെ സാധുത ആവശ്യപ്പെടുന്നില്ലെന്ന് ഇതിലൂടെ നമുക്ക് മനസിലാക്കാം പേറ്റന്റിന്റെ സാധുതയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പേറ്റന്റബിലിറ്റി തിരയൽ എന്നും ഇത് നമ്മോട് പറയുന്നു പേറ്റന്റിന്റെ സാധുതയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് പേറ്റന്റബിലിറ്റി തിരയൽ എന്നും ഇത് നമ്മോട് പറയുന്നു ഇപ്പോൾ തിരയൽ വശങ്ങളെ കുറിച്ച് സെക്ഷൻ 12 13 Section 1213 എന്നിവയും സെക്ഷൻ 64 തിരയലിന്റെ സാധുതയെ കുറിച്ചും ഏതടിസ്ഥാനത്തിൽ സാധുതയെ ചോദ്യം ചെയാം എന്നതിനെയും പട്ടികപ്പെടുത്തുന്നു ഇപ്പോൾ തിരയൽ വശങ്ങളെ കുറിച്ച് സെക്ഷൻ 12 13 Section 1213 എന്നിവയും സെക്ഷൻ 64 തിരയലിന്റെ സാധുതയെ കുറിച്ചും ഏതടിസ്ഥാനത്തിൽ സാധുതയെ ചോദ്യം ചെയാം എന്നതിനെയും പട്ടികപ്പെടുത്തുന്നു ഈ രണ്ട് കാര്യങ്ങളും തികച്ചും വ്യത്യസ്തമാണ് ഈ രണ്ട് കാര്യങ്ങളും തികച്ചും വ്യത്യസ്തമാണ് പേറ്റന്റബിളിറ്റി തിരയൽ എന്നത് പേറ്റന്റിന്റെ സാധുതയെക്കുറിച്ചുള്ള റിപ്പോർട്ടല്ലെന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് പേറ്റന്റബിളിറ്റി തിരയൽ എന്നത് പേറ്റന്റിന്റെ സാധുതയെക്കുറിച്ചുള്ള റിപ്പോർട്ടല്ലെന്ന് ഓർമ്മിക്കേണ്ടതുണ്ട് പേറ്റന്റിന്റെ സാധുതയ്ക്ക് ആഴത്തിലുള്ള വിശകലനം ആവശ്യമാണ് പേറ്റന്റിന്റെ സാധുതയ്ക്ക് ആഴത്തിലുള്ള വിശകലനം ആവശ്യമാണ് കൂടാതെ സാധുത റിപ്പോർട്ടിൽ പേറ്റന്റ് സാധുതയുള്ളതാണോ അതിന് വിരുദ്ധമായ കാരണങ്ങൾ എന്തൊക്കെയാണ് പേറ്റന്റ് നല്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ് അതുമല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട പേറ്റന്റ് എന്ത് കൊണ്ട് അസാധുവായി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയായിരിക്കും ഉണ്ടാകുക കൂടാതെ സാധുത റിപ്പോർട്ടിൽ പേറ്റന്റ് സാധുതയുള്ളതാണോ അതിന് വിരുദ്ധമായ കാരണങ്ങൾ എന്തൊക്കെയാണ് പേറ്റന്റ് നല്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ് അതുമല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട പേറ്റന്റ് എന്ത് കൊണ്ട് അസാധുവായി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയായിരിക്കും ഉണ്ടാകുക ഒരു സാധുതാ റിപ്പോർട്ട് അല്ലെങ്കിൽ പേറ്റന്റബിലിറ്റി പഠനം കുറഞ്ഞത് 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു ഒരു സാധുതാ റിപ്പോർട്ട് അല്ലെങ്കിൽ പേറ്റന്റബിലിറ്റി പഠനം കുറഞ്ഞത് 3 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു ഒന്ന് പേറ്റന്റ് ലംഘന സ്യൂട്ടിൽ പ്രതിയായ വ്യക്തിക്ക് പേറ്റന്റ് അസാധുവാക്കാൻ പ്രതിവാദം ഉന്നയിക്കാനായി ഇത് ഉപയോഗിക്കാം ഒന്ന് പേറ്റന്റ് ലംഘന സ്യൂട്ടിൽ പ്രതിയായ വ്യക്തിക്ക് പേറ്റന്റ് അസാധുവാക്കാൻ പ്രതിവാദം ഉന്നയിക്കാനായി ഇത് ഉപയോഗിക്കാം പേറ്റന്റ് ലംഘന സ്യൂട്ടിൽ ഒരു പ്രതിവാദം അല്ലെങ്കിൽ അസാധുവാക്കിയതിനെതിരായുള്ള ഒരു പ്രതിരോധം തീർക്കാൻ ഉപയോഗിക്കാം പേറ്റന്റ് ലംഘന സ്യൂട്ടിൽ ഒരു പ്രതിവാദം അല്ലെങ്കിൽ അസാധുവാക്കിയതിനെതിരായുള്ള ഒരു പ്രതിരോധം തീർക്കാൻ ഉപയോഗിക്കാം അതിനാൽ പേറ്റന്റ് സാധുതയുള്ളതാണോ അല്ലയോ എന്ന് പ്രതി മനസിലാക്കുന്നതിന് ഒരു സാധുതാപഠനം നടത്താം അതിനാൽ പേറ്റന്റ് സാധുതയുള്ളതാണോ അല്ലയോ എന്ന് പ്രതി മനസിലാക്കുന്നതിന് ഒരു സാധുതാപഠനം നടത്താം പേറ്റന്റ് ചെയ്യുന്ന വ്യക്തിക്ക് പേറ്റന്റ് ലംഘന സ്യൂട്ടിൽ വിജയം നേടാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്നറിയാൻ ഒരു സാധുതാ പഠനം ആവശ്യപ്പെടാം പേറ്റന്റ് ചെയ്യുന്ന വ്യക്തിക്ക് പേറ്റന്റ് ലംഘന സ്യൂട്ടിൽ വിജയം നേടാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്നറിയാൻ ഒരു സാധുതാ പഠനം ആവശ്യപ്പെടാം ഇത് രണ്ടാമത്തെ സാഹചര്യം ഇത് രണ്ടാമത്തെ സാഹചര്യം സാധുതാപഠനം പ്രസക്തമാകുന്ന മൂന്നാമത്തെ സാഹചര്യം പേറ്റന്റ് വാങ്ങാൻ ശ്രമിക്കുന്ന വ്യക്തിക്കോ അതിന്റെ ലൈസെൻസിക്കോ പേറ്റന്റിന്റെ മൂല്യം എത്രത്തോളം ആണെന്ന് മനസിലാക്കാൻ സഹായകമാകുമ്പോഴാണ് സാധുതാപഠനം പ്രസക്തമാകുന്ന മൂന്നാമത്തെ സാഹചര്യം പേറ്റന്റ് വാങ്ങാൻ ശ്രമിക്കുന്ന വ്യക്തിക്കോ അതിന്റെ ലൈസെൻസിക്കോ പേറ്റന്റിന്റെ മൂല്യം എത്രത്തോളം ആണെന്ന് മനസിലാക്കാൻ സഹായകമാകുമ്പോഴാണ് അതായത് ഇതിനെ പേറ്റന്റിന്റെ മൂല്യം മനസിലാക്കാൻ സഹായകമായ അല്ലെങ്കിൽ തത്തുല്യമായ ഒരു അളവുകോലായി ഉപയോഗിക്കാവുന്നതാണ് അതായത് ഇതിനെ പേറ്റന്റിന്റെ മൂല്യം മനസിലാക്കാൻ സഹായകമായ അല്ലെങ്കിൽ തത്തുല്യമായ ഒരു അളവുകോലായി ഉപയോഗിക്കാവുന്നതാണ്